പ്രഭാഷണത്തിലേക്ക് തിരികെ സ്വാഗതം ഇത് നിങ്ങളുടെ ഉദാഹരണ നമ്പർ 32 ആണ് ഈ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം DC സർക്യൂട്ട് നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അതിനാൽ സിംഗിൾ ഫേസ് ത്രീ ഫേസ് AC സർക്യൂട്ടുകൾക്കായി ഈ സിദ്ധാന്തം എല്ലാം ഒരേപോലെ തുടരുമെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഒരു AC സർക്യൂട്ടുകളുടെ കോംപ്ലക്സ് നമ്പർ ഉൾപ്പെടും ആ ചർച്ചയിൽ പല ഉദാഹരണങ്ങളും കാരണം ഇത് സമയപരിധിയാണ് ആ സമയത്ത് ഉദാഹരണങ്ങളുടെ എണ്ണം കുറയും പക്ഷേ കാര്യങ്ങൾ നിങ്ങളുടെ DC സർക്യൂട്ടിന് തുല്യമാണ് കോംപ്ലക്സ് നമ്പർ കൈകാര്യം ചെയ്യും എന്നതാണ് ഉദാഹരണത്തിന് ഈ ഉദാഹരണത്തിലേക്ക് മടങ്ങുക ഈ സാഹചര്യത്തിൽ ഈ സർക്യൂട്ടിനായി നിങ്ങൾ നിർണ്ണയിക്കുന്ന RThevenin നിർണ്ണയിക്കേണ്ടതുണ്ട് ഈ സർക്യൂട്ടിൽ ഇൻഡിപെൻഡന്റ് സോഴ്സ് ഒന്നുമില്ല അതിനർത്ഥം നിങ്ങളുടെ പരിശോധനയിൽ നിന്ന് നിങ്ങൾക്ക് RThevenin യഥാർത്ഥത്തിൽ 0 ആക്കാം കാരണം സ്വതന്ത്ര VThevenin 0 ഇല്ല ഇപ്പോൾ ചോദ്യം VThevenin 0 ആണെന്നാണ് പക്ഷേ നിങ്ങൾക്ക് RThevenin കണ്ടെത്താനാകും കാരണം ഡിപെൻഡന്റ് സോഴ്സ് ഇത് 2 ix ഉം ഇത് ix ഉം ആണ് ഡിപെൻഡന്റ് സോഴ്സ് അവിടെയുണ്ട് എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് i0 ബന്ധിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് 1 ആമ്പിയർ എന്ന് പറയുന്ന വാല്യൂ i0 എടുക്കാം ഈ വോൾട്ടേജ് ഇത് V0 എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് നിങ്ങളുടെ V0 വോൾട്ടേജാണ് കാരണം ഇത് ഒരു സാധാരണ നോഡാണ് ഇത് നിങ്ങളുടെ V0 ആണ് ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ V0 ആണ് അതിനാൽ RThevenin നിങ്ങൾക്ക് V0 i0 ലഭിക്കും ഇത് ചെയ്യുന്നതിന് നിങ്ങളുടെ തുല്യമായ സർക്യൂട്ടിലേക്ക് പോകാം അതിനാൽ ഇത് VThevenin 0 ആണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ i0 ഉണ്ടാക്കി കാരണം നിങ്ങളുടെ ഒരു കറന്റ് സോഴ്സ് i0 1 ആമ്പിയർ ഉണ്ട് ഈ V V0 യഥാർത്ഥത്തിൽ അത് നോഡൽ അനാലിസിസ് പോലെയാണ് ഇത് നോഡൽ അനാലിസിസ് ആണ് നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഗ്രൌണ്ടും ഈ വോൾട്ടേജ് V0 ഉം ആണ് അർരൌ എന്നതിനർത്ഥം ഇത് ഇതാണ് ഇത് ഒരു സാധാരണ നോഡാണ് കാരണം എലെക്ട്രിക്കൽ എലെമെന്റ്സ് ബന്ധിപ്പിച്ചിട്ടില്ല അടിസ്ഥാനപരമായി ഇത് ഒരു മാർഗമാണ് ഒരു പൊതു നോഡ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ കെസിഎൽ പ്രയോഗിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഈ ദിശയിലൂടെ ഒഴുകുന്ന കറന്റ് ഇത് V0 4 ആണ് അവ ഇവിടെ നിലവിലുണ്ട് ഈ ix മുകളിലേക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ദിശ കറന്റ് V നിങ്ങളുടെ V0 V ആണ് ഇത് വീണ്ടും നിർമ്മിക്കുക ഇത് നിങ്ങളുടെ V0 4 ആണ് നിങ്ങൾ ഈ ദിശ എടുക്കുകയാണെങ്കിൽ അത് V0 2 ആയിരിക്കും അതായത് ix മുകളിലേക്ക് എടുക്കുന്നു അതായത് ix V0 2 ഇത് നിങ്ങളുടെ പൊതുവായ നോഡാണ് ഇത് അടിസ്ഥാനപരമായി സമാന നോഡാണ് ഇതാണ് നോഡ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഈ 2 ix കറന്റ് ഈ കറന്റ് ഈ നോഡിൽ നിന്ന് ഈ കറന്റ് വരുന്നു ഇത് അവർ ഇവിടെ കെസിഎൽ പ്രയോഗിക്കുന്നു ഇത് ഇവിടെ നിർമ്മിക്കുന്നത് ഒരു സാധാരണ നോഡാണ് നിലവിലെ V0 4 ഇത് നിങ്ങളുടെ V0 4 ആണ് ഇതും ഈ ടെർമിനലിൽ നിന്ന് പുറത്തുപോകുന്നു മറ്റൊരു കറന്റ് ix ഈ ix എടുക്കും അതിനാൽ ix V0 2 മറ്റൊരു കറന്റ് ix അറിയുക അത് ഈ നോഡിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് നിങ്ങളുടെ ix പ്രവേശിക്കുന്നത് കൂടാതെ ഈ i0 കറന്റും ഇവിടെ പ്രവേശിക്കുന്നു ഈ കറന്റ് i0 നോഡിലേക്ക് പ്രവേശിക്കുന്നു ഈ രണ്ട് കറന്റുകൾ i0 ഉം ix ഉം ഈ രണ്ട് പ്രവേശിക്കുന്നു ഇവിടെ എഴുതുക i0 ix ഈ രണ്ട് കറന്റുകൾ നോഡിലേക്ക് പ്രവേശിക്കുന്നത് ഈ 2 ix V0 4 ന് തുല്യമാണ് ഈ കറന്റ് സോഴ്സ് അനുസരിച്ച ഇവ ഉപേക്ഷിക്കുന്നു അതിനാൽ 2 ix V0 4 എന്നാൽ ix V0 2 കാണുക നിങ്ങൾ ഇവിടെ ix ഇടുകയാണെങ്കിൽ V0 2 V0 2 അപ്പോൾ നിങ്ങൾക്ക് V0 ന്റെ മൂല്യം ലഭിക്കും നിങ്ങൾക്ക് V0 നായി പരിഹരിക്കാനാകും അങ്ങനെ പറഞ്ഞതെല്ലാം നിങ്ങളുടെ i0 ix 2 ix V0 4 i0 ix 2 ix V0 ന് 4 V0 4 ആണ് അതിനാൽ ix V0 2 നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പകരം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് V0 4 i0 ലഭിക്കും അതിനർത്ഥം നിങ്ങൾ എടുത്ത i0 തുല്യമാണ് നിങ്ങൾ വിളിക്കുന്നതിനെ i0 പറയുക 1 ആമ്പിയർ ഏതെങ്കിലും മൂല്യം നിങ്ങൾക്ക് അത് എടുക്കാം എന്നത് പ്രശ്നമല്ല നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും യഥാർത്ഥത്തിൽ V0 4 i0 എന്ന ബന്ധം ലഭിച്ചു ഇവിടെ പരിഗണിക്കുന്നതിനുള്ള ഒരു ചോദ്യവുമില്ല കൂടാതെ i0 1 ആമ്പിയർ ആവശ്യമില്ല കാരണം യഥാർത്ഥത്തിൽ 4 RT ആയ RThevenin V0 i0 സർക്യൂട്ടിൽ ഡിപെന്റന്റ് സോഴ്സുകൾ ഉള്ളപ്പോൾ RThevenin നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു ഇത് 4 Ω അതായത് നെഗറ്റീവ് മൂല്യം തെവെനിൻ റെസിസ്റ്റൻസ് സൂചിപ്പിക്കുന്നത് അതിന്റെ ഇരുപത് സർക്യൂട്ട് ആണ് ചിത്രം 28 വൈദ്യുതി വിതരണം ചെയ്യുന്നു സർക്യൂട്ടിൽ ഡിപെൻഡന്റ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കറന്റ് ഡിപെൻഡന്റ് കറന്റ് സോഴ്സുകൾ ആയിരുന്നു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ RThevenin ആകാനുള്ള സാധ്യതയുണ്ട് 4 അതായത് യഥാർത്ഥത്തിൽ വൈദ്യുതി നൽകുന്ന സർക്യൂട്ട് ഇതാണ് അർത്ഥം ഈ സാഹചര്യത്തിൽ ഈ ബന്ധം V0 4 i0 ലഭിച്ചു അതിനാൽ i0 അല്ലെങ്കിൽ V0 V i0 മൂല്യം സജ്ജമാക്കേണ്ടതുണ്ട് കാരണം നേരിട്ട് V0 i0 അനുപാതം ലഭിക്കുന്നു 4 Ω അതിനാൽ നെഗറ്റീവ് തെവെനിൻ റെസിസ്റ്റൻസ് ശരിക്ക് നൽകുന്ന ഒരു ഉദാഹരണമാണിത് തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് ചിത്രം 30 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ കുറഞ്ഞ റെസിസ്റ്റൻസ് RLലുടനീളം വോൾട്ടേജ് നിർണ്ണയിക്കുന്നു ഇത് അതിന്റെ അധ്യായം 4 30 ആണ് ഇത് ചിത്രം 30 ആണ് അതിനാൽ ലോഡ് റെസിസ്റ്റൻസ് RL 4 Ω വഴി നിങ്ങളുടെ നിലവിലെ തെവെനിന്റെ സിദ്ധാന്തം കണ്ടെത്തേണ്ടതുണ്ട് തെവെനിന്റെ സിദ്ധാന്തത്തിനായി ഈ ലോഡ് റെസിസ്റ്റൻസ് നീക്കംചെയ്യുക നിങ്ങൾ ചെയ്തത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആക്കും ആദ്യം അതിനർത്ഥം ഇതിനർത്ഥം നിങ്ങൾ V കണ്ടെത്തണം നിങ്ങൾ VThevenin എന്ന് വിളിക്കുന്നു അതിനാൽ RL 4 Ω ഇവിടെ തുറന്നിരിക്കുന്നു നിങ്ങളുടെ അടിസ്ഥാനപരമായി ഇത് ഒരു തുല്യ V 1 2 1 2 1 ടെർമിനൽ എഴുതുമ്പോൾ അത് എന്നും രണ്ട് അർത്ഥം എന്നും അർത്ഥമാക്കുന്നു V ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിന് തുല്യമായ V o VThevenin Voc VThevenin യഥാർത്ഥത്തിൽ V 12 ഇത് യഥാർത്ഥത്തിൽ ഈ അർരൌ ഉണ്ടാകും ഇതിനെയാണ് നിങ്ങൾ Voc VThevenin എന്ന് വിളിക്കുന്നത് ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് ഈ 4 Ω റെസിസ്റ്റൻസിലുടെ കറന്റ് ഒഴുകുന്നില്ല കാരണം ഇത് തുറന്നിരിക്കുന്നുനിങ്ങൾ കെവിഎൽ എന്ന് വിളിക്കുന്നതിനെ ഈ മെഷിൽ പ്രയോഗിക്കുന്നു നിങ്ങൾ ഈ മെഷിൽ കെവിഎൽ പ്രയോഗിച്ചാൽ നിലവിലുള്ളത് ഇതിനകം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ളത് i ആണ് നിങ്ങൾക്കായി ഇത് ഇവിടെ എഴുതാൻ കഴിയും അത് 12 I ആണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം 6 പിന്നെ 6I പിന്നെ 24 0 അതായത് നിങ്ങൾ R32 6 6 i18 18 ഇത് 1 ആമ്പിയർ ആണ് ഇപ്പോൾ നിങ്ങൾ കെവിഎൽ പ്രയോഗിക്കുന്നു ഈ സാഹചര്യത്തിൽ കറന്റ് ഫ്ലോ ഇല്ല ഈ 4 Ω റെസിസ്റ്റൻസ് 0 ആണ് നിങ്ങൾ കെവിഎൽ ഇതുപോലെ നീക്കുകയാണെങ്കിൽ ഇവിടെ 6 എഴുതാം നിങ്ങൾക്ക് 1 ആമ്പിയർ ലഭിച്ചു അതിനാൽ 6 ലേക്ക് VThevenin 0 കാരണം ഇത് നെഗറ്റീവ് ടെർമിനലിനെ അഭിമുഖീകരിക്കുന്നു VThevenin 6 6 1 അതിനാൽ അതാണ് നിങ്ങൾ R32 12 വോൾട്ട് ഇവിടെ VThevenin 12 വോൾട്ട് ഇത് ഇതിനകം ഇവിടെ പരിഹരിച്ചിരിക്കുന്നു എല്ലാം ഇവിടെ പരിഹരിച്ചു അതിനാൽ VThevenin 12 വോൾട്ട് ചെയ്യും നിങ്ങൾ ഇവിടെ വന്നാൽ ആ തെവെനിൻ VThevenin ഇവിടെ നിങ്ങൾ R32 വോൾട്ട് ആയി കണക്കാക്കിയതായി വഴി കാണിച്ചുതന്നു ഇതാണ് നിങ്ങളുടെ VThevenin Voc V 1 2 ഒരേ കാര്യം അടുത്തത് RThevenin കണക്കുകൂട്ടണം അതിനാൽ RThevenin ന് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ആണ് വോൾട്ടേജ് സോഴ്സ് RThevenin നായി ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ ഈ ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ 12 Ω ഉം 6 Ω ഉം ഉണ്ട് ഇതിന് സമാന്തരമായി ഈ 4 Ω സീരീസ് നിങ്ങളുടെ RThevenin ആയിരിക്കും ഇതാ നിങ്ങളുടെ രണ്ട് സോഴ്സുകൾ ഹ്രസ്വവും 12 ഉം 6 ഉം നിങ്ങൾ വിളിക്കുന്നത് സമാന്തരമാണ് അതിനർത്ഥം നിങ്ങളുടെ RThevenin 12 മുതൽ 612 6 വരെ ഈ 4 ശ്രേണിയിൽ അടിസ്ഥാനപരമായി ഇത് നിങ്ങൾ 67218 ലേക്ക് R32 ആയിരിക്കും അതിനാൽ 4 4 അതാണ് നിങ്ങളുടെ 8 Ω അതാണ് നിങ്ങളുടെ RThevenin ഇവിടെ RThevenin 80 8 Ω ആണ് അടുത്തത് ഇതിനർത്ഥം ഇത് നിങ്ങളുടെ VThevenin ആണ് അതിനൊപ്പം RThevenin സീരീസ് 8 Ω ൽ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ടെർമിനൽ വർക്ക് ലോസ് ടെർമിനൽ 1 2 എന്നിവയിലെ RL 4 Ω റെസിസ്റ്റൻസിനെ ബന്ധിപ്പിക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന കറന്റ് നിങ്ങൾ കണ്ടെത്തും ഇവിടെ മൊത്തം റെസിസ്റ്റൻസ് 8 Ω ആണ് ഇവിടെ ഇത് 4 Ω 12 Ω ആണ് അതിനാൽ VThevenin RThevenin RL എന്ന് പറയുക അതിനാൽ VThevenin 12 വോൾട്ടും RThevenin 8 Ω ഉം RL 4 Ω ഉം ആയതിനാൽ യഥാർത്ഥത്തിൽ 1 ആമ്പിയർ അതായത് 1 ആമ്പിയർ നിങ്ങൾ ഈ മാർഗ്ഗത്തിലൂടെ കടന്നുപോയി 1 ആമ്പിയർ കറന്റ് ഒഴുകുന്നു ഈ ലോഡ് റെസിസ്റ്റൻസ് RL നിങ്ങൾ RL 5 Ω 6 Ω ലേക്ക് മാറ്റുകയാണെങ്കിൽ RL വേരിയബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല കൂടാതെ RL 6 Ω 7 Ω 8 Ω ആയി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് RL വഴി കറൻറ് ലഭിക്കും കാരണം ബാക്കി സർക്യൂട്ട് സമാനമായിരുന്നു സർക്യൂട്ടിന്റെ എല്ലായ്പ്പോഴും VThevenin RThevenin എന്നിവ സ്ഥിരമായി നിലനിൽക്കും ഇതാണ് തെവെനിന്റെ സിദ്ധാന്തത്തിന്റെ പ്രയോജനം നിങ്ങളുടെ VL 4 ഉം ഇതിലൂടെ ഒഴുകുന്ന കറന്റും 1 ആമ്പിയർ ആണ് ഇത് 4 മുതൽ 1 വരെയാണ് നിങ്ങളുടെ 4 വോൾട്ട് ഈ ലോഡ് റെസിസ്റ്റൻസിനു കുറുകെയുള്ള വോൾട്ടേജ് 4 വോൾട്ട് അതുകൊണ്ടാണ് അതിനാലാണ് ഈ 4 വോൾട്ട് ലഭിച്ചത് ഇവിടെ ഇത് 4 വോൾട്ട് VL ആണ് അടുത്ത ഒരു ഇനം പ്രശ്നങ്ങൾ എടുത്തിട്ടുണ്ട് അടുത്തത് തെവെനിന്റെ സിദ്ധാന്തം 0 1 നും 2 നും ഇടയിൽ മൂന്ന് Ω റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് നിർണ്ണയിക്കുന്നു ഈ 3 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന കറന്റ് നിങ്ങൾ കണ്ടെത്തേണ്ട പ്രശ്നമാണിത് ഈ ദിശയിൽ 1 മുതൽ 2 വരെ അതിനാൽ 0 1 നും 2 നും ഇടയിൽ 3 Ω റെസിസ്റ്റൻസ് ഉണ്ട് ആദ്യം നിങ്ങൾ അത് തുറക്കണം നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ V 1 2 Voc ഓപ്പൺ സർക്യൂട്ട് VThevenin എന്നതിന് തുല്യമാണ് അതിനുശേഷം നിങ്ങൾ ആദ്യം അത് കണ്ടെത്താൻ ശ്രമിക്കണം അതിനുശേഷം നിങ്ങളുടെ RThevenin ഉം കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ 3 Ω റെസിസ്റ്റൻസ് തുറക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അത് നീക്കംചെയ്യുക നിങ്ങൾ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് ഇതുപോലെയാണ് ഇത് നിങ്ങളുടെ വോക്ക് ആണ് ഇത് 1 ഉം 2 1 പോസിറ്റീവ് 2 നെഗറ്റീവ് അനിയന്ത്രിതവുമാണ് നിങ്ങൾക്ക് 2 പോസിറ്റീവ് 1 നെഗറ്റീവ് എടുക്കണമെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് സ്വമേധയാ എടുത്തതാണ് ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ ഈ വോൾട്ടേജ് നിങ്ങളുടെ Voc എന്ന് വിളിക്കുന്നു ആ അർരൌ ടിപ്പ് ആണ് ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ Voc VThevenin V 1 എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം തന്നെ ഈ വഴി i2 എടുത്തത് എങ്ങനെ കണ്ടെത്തും i2 തുറന്നതിനാൽ ഈ രീതിയിൽ എടുക്കുന്നു ഇത് ഒരു പ്രത്യേക മെഷ് ആണ് കാരണം ഇത് തുറന്നിരിക്കുന്നു ഇവിടെ കറന്റൊന്നും ഒഴുകുന്നില്ല ഇത് തുറന്നിരിക്കുന്നു കറന്റ് ഇവിടെ ഇതുപോലെ ഒഴുകുന്നു i2 എടുത്ത വഴി ഇത് i2 ഇത് നിങ്ങളുടെ i1 2 ഇൻഡിപെൻഡന്റ് മെഷ് ആണ് ഈ സാഹചര്യത്തിൽ i1 ന്റെ ദിശ ഇതുപോലെയാണ് കൂടാതെ i2 നിങ്ങളുടെ ഒരു കറന്റ് സോഴ്സ് 1 ആമ്പിയർ ഇതുപോലെയാണ് ഇത് i2 ആണ് അതായത് i2 നിങ്ങൾക്കുള്ള വഴിയിലൂടെ ഒഴുകുന്നു എടുത്ത i2 1 ആമ്പിയർ അതിനാൽ നേരിട്ട് നിങ്ങൾക്ക് i2 1 ആമ്പിയർ എഴുതാൻ കഴിയും കാരണം കറന്റ് സോഴ്സ് മാത്രമേ കറന്റിൽ ഉള്ളൂ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ i1 ലഭിക്കാൻ നിങ്ങൾ KVL എന്ന് വിളിക്കുന്നവ പ്രയോഗിക്കണം അതിനാൽ 6 12 18 അതിനാൽ 6 12 മുതൽ i1 6 വരെ ഈ 6 വോൾട്ട് i1 മൂന്നിലൊന്ന് ആമ്പിയർ 618 ആണ് മൂന്നിലൊന്ന് ആമ്പിയർ ഈ i2 1 ആമ്പിയറും i1 മൂന്നിലൊന്ന് ആമ്പിയറും ഇത് നിങ്ങളുടെ i1 ആണ് ഇത് നിങ്ങളുടെ i2 ആണ് എന്തായാലും വിശദീകരിച്ചു ഇത് നിങ്ങളുടെ Voc VThevenin ആണ് ഇപ്പോൾ ആ Voc നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്താണ് കെവിഎൽ ഇതുപോലെ പ്രയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്നുവെന്ന് കരുതുക നിങ്ങൾ ആന്റി ക്ലോക്ക്വൈസ് ദിശ എന്ന് വിളിക്കുന്ന ഘടികാരദിശയിൽ പറയുക ഇതുപോലെ എഴുതിയിട്ടുണ്ടെന്ന് കരുതുക ഇത് 12 i1 ആയിരിക്കും കാരണം i1 ഈ 12 i1 പോലെ ഒഴുകുന്നു അപ്പോൾ ഇത് ആയിരിക്കും 2 i 2 കാരണം i2 ഇതുപോലെ നീങ്ങുന്നു പക്ഷേ ആന്റി ക്ലോക്ക്വൈസ് നീങ്ങുന്നു അതിനാൽ ഇത് 2 i2 തുല്യമാണ് VThevenin അവർ നിങ്ങൾക്കായി ഇവിടെ എഴുതുന്നു ഇത് അടിസ്ഥാനപരമായി 12 i1 2 i2 ആണ് തുടർന്ന് ആദ്യം കണ്ടുമുട്ടുന്നു ടെർമിനൽ അതിനാൽ Voc Voc എന്നത് VThevenin 0 എന്നാണ് അതിനർത്ഥം Voc VThevenin 12 i1 2 i2 അതായത് 13 അതായത് 2 മുതൽ 1 2 വോൾട്ട് വരെ അതിനാൽ VThevenin 2 വോൾട്ട് അടുത്തത് ഇതാണ് നിങ്ങളുടെ RThevenin ലഭിക്കുന്നതിന് ഒരു കറന്റ് ഉറവിടമുണ്ട് കറന്റ് ഉറവിടം തുറന്നിരിക്കുന്നു നിങ്ങൾ ഓഫാക്കേണ്ടതുണ്ട് വോൾട്ടേജ് ഉറവിടം ഇത് ഇവിടെ ചെറുതാണ് അതിനാൽ അവസാനമായി അതിൽ നിന്ന് 1 മുതൽ 2 വരെ ടെർമിനലിനുള്ളിൽ നിങ്ങളുടെ RThevenin ലഭിക്കണം ഈ സാഹചര്യത്തിൽ 6 Ω 12Ω എന്നിവ സമാന്തരമാണ് അതിനർത്ഥം 6 126 12 ഈ 2Ω ശ്രേണിയിൽ ഉള്ളതിനാൽ 2 അത് 4 ആണ് ഇത് 4 ആയിരിക്കും ഈ ഭാഗം 4 2 6Ω ആയിരിക്കും അതിനാലാണ് നിങ്ങളുടെ RThevenin ഇവിടെ ഇത് 6Ω ആണ് ഇത് നിങ്ങളുടെ VThevenin ന് 2 വോൾട്ട് ലഭിച്ചു RThevenin ന് 6Ω ലഭിച്ചു അത് 1 ഉം 2 ഉം 3 Ω ആണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു പാത്ത് സർക്യൂട്ട് അടച്ചിരിക്കുന്നു അതിനർത്ഥം VThevenin RThevenin 3Ω പ്രതിരോധം നിങ്ങൾ R2 6 3 അതാണ് 29 ആമ്പിയർ അതിനാൽ 3 Ω പ്രതിരോധത്തിലേക്ക് 29 ആമ്പിയർ കറന്റ് ഒഴുകുന്നു ഇത് നിങ്ങൾ R2 9 ആമ്പിയർ VThevenin RThevenin 3 ആണ് ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുക തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് അടുത്തത് ചിത്രം 36 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ 10 Ω പ്രതിരോധത്തിന് 10 Ω പ്രതിരോധത്തിലൂടെ വൈദ്യുതധാര നിർണ്ണയിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ചിത്രം 36 ആണ് ഞാൻ ഇത് കുറച്ച് നീക്കട്ടെ അതിനാൽ ഇത് ചിത്രം 36 ഉം 10 Ω ഉം ഈ 10 Ω 1 മുതൽ 2 വരെ അർത്ഥമാക്കുന്നു ഈ 10 Ω ഈ 10 Ω പ്രതിരോധത്തിലൂടെ നിങ്ങൾ വൈദ്യുതധാര കണ്ടെത്തണം ഈ വോൾട്ടേജിന് 20 വോൾട്ട് നൽകിയിരിക്കുന്നു അത് എപ്പോഴാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്നതാണ് ചോദ്യം തുടർന്ന് ഈ 10 Ω പ്രതിരോധം ആദ്യം നിങ്ങൾ അത് നീക്കംചെയ്യണം അതിനർത്ഥം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് തെവെനിൻ വോൾട്ടേജ് ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ഇത് ഓപ്പൺ സർക്യൂട്ട് ആക്കണം നിങ്ങളുടെ RThevenin തെവെനിൻ പ്രതിരോധം എന്നിവയും നിങ്ങൾ കണ്ടെത്തണം അതിനാൽ ആദ്യം അത് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് 10 Ω പ്രതിരോധം തുറന്നിരിക്കുന്നു ഇത് തുറന്നിരിക്കുന്നു എന്നതാണ് ഇത് നിങ്ങളുടെ ടെർമിനൽ 1 ആണ് ഇത് ടെർമിനൽ 2 ആണ് അതിനാൽ Voc യഥാർത്ഥത്തിൽ ഒന്നുമില്ല പക്ഷേ VThevenin പലതവണ പറയുന്നു V 1 2 ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം എന്താണ് i1 എന്താണ് i2 1 2 എന്നിവ ഈ 10 Ω പ്രതിരോധം തുറന്നിരിക്കുന്നതിനാൽ ഇത് തുറന്നിരിക്കുന്നു ഈ i1 കറന്റ് ഇത് 90 Ω ഉം 10Ω രണ്ടും സീരീസിലാണ് ഇവിടെയും i1 കറന്റ് ഒഴുകുന്നു അതുപോലെ ഇത് തുറന്നിരിക്കുന്നു i2 ഒഴുകുന്നു എന്നാണ് ഇതിനർത്ഥം ഈ ബ്രാഞ്ചും i2 കറന്റ് ഒഴുകുന്നു നിങ്ങൾ ഇത് കണ്ടെത്തണം ഇതിലൂടെ ഉടനീളം വോൾട്ടേജ് യഥാർത്ഥത്തിൽ 20 വോൾട്ട് ബന്ധിപ്പിക്കും സർക്യൂട്ട് നിങ്ങളുടെ ധാരണയ്ക്ക് മാത്രമാണ് അതിനാൽ 90 Ω 10 ഇവ രണ്ടും ശ്രേണിയിലാണ് അടിസ്ഥാനപരമായി ഇത് 100Ω ആണ് അതുപോലെ തന്നെ 55 ഉം 5Ω ഉം രണ്ടും സീരീസിലാണ് ഇത് നിങ്ങളുടെ 60Ω ആയിരിക്കും ഒപ്പം ഈ 20 വോൾട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് 20 വോൾട്ട് ആണ് ഇതിലൂടെ കറന്റ് ഇത് i1 ഉം ഇതിലൂടെ കറന്റ് i2 ഉം ആണ് അതിനാൽ i1 R20 വോൾട്ട് 100 ഇത് നിങ്ങളുടെ 15 ആമ്പിയറായി മാറും ഇവിടെ ഇത് i1 15 ആമ്പിയർ ആണ് അതുപോലെ i2 20 വോൾട്ട് കാരണം ഇത് സമാന്തര സർക്യൂട്ട് 60 അത് 13 ആമ്പിയർ അത് R3 3 ആമ്പിയർ ആണ് നിങ്ങൾക്ക് i1 15 ആമ്പിയറും i2 i1 ഉം 15 ആമ്പിയറും i2 നിങ്ങൾക്ക് 13 ആമ്പിയറും ലഭിച്ചു ഇപ്പോൾ നിങ്ങൾ എന്തുചെയ്യും ഇവിടെ നിങ്ങൾ KVL പ്രയോഗിക്കുന്നു ഇതാണ് നിങ്ങളുടെ Voc എന്നാൽ VThevenin എന്നാണ് നിങ്ങൾ ആ KVL പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെയും ഈ വശത്ത് ഇടത് വശത്തും നിങ്ങൾക്ക് പ്രേയോഗികം നിങ്ങൾ ഇത് ചെയ്താൽ സമാന ഫലം ലഭിക്കും ഈ i1 കറന്റ് ഇവിടെ ഒഴുകുന്നു ഇവിടെ i2 ഇതുപോലെയാണ് ഇത് 10 i1 ആയിരിക്കും ഇത് 10 i1 ആണ് ഈ 5 i2 കാരണം ഇത് ഈ വഴി നീങ്ങുന്നു പക്ഷേ ഇത് ഈ വഴിയാണ് പോകുന്നത് അതിനാൽ 5 i2 Voc that 0 അതായത് നിങ്ങളുടെ Voc VThevenin ഇത് R30 i1 5 i2 ഇപ്പോൾ i1 മൂല്യം ഇതും i2 മൂല്യം ഇതും ഇട്ടാൽ നിങ്ങൾക്ക് VThevenin വോൾട്ടേജ് ലഭിക്കും ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ആ Voc മൂന്നിലൊന്ന് വോൾട്ട് ലഭിക്കും ആ മൂല്യങ്ങൾ നൽകിയ ശേഷം VThevenin Voc ഈ മൂന്നിലൊന്ന് വോൾട്ട് 13 വോൾട്ട് ലഭിക്കും ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ RThevenin ഉം ഇവിടെ ലഭിക്കണം നിങ്ങളുടെ ടെർമിനൽ 1 നും 2 നും ഇടയിൽ എന്താണ് RThevenin അതിനാൽ RThevenin ന് ഈ വോൾട്ടേജ് ഉറവിടം ചെറുതാണ് അതിനർത്ഥം ഈ രണ്ട് പോയിന്റുകളും ചെറുതാണ് ഇതിനായി തുല്യമായ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഒന്നായി മാറ്റുക ഇത് ഒന്നാണ് നിങ്ങളുടെ ആദ്യത്തേത് നിർമ്മിക്കുന്നതിനുമുമ്പ് അത് അവിടെ നിർത്താൻ അനുവദിക്കുക ഇതിന് തുല്യമായത് നേടുന്നതിനാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് പോയിന്റുകളും നിങ്ങളുടെ പോയിന്റാണ് ഈ പോയിന്റ് ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരു വയർ മാത്രം അതിനാൽ ഇതുപോലെയാണെങ്കിൽ ഇത് 90Ω ആണ് 1 ആക്കുക ഇത് 10Ω ആണ് അതിനർത്ഥം ഇതുപോലുള്ള ഈ പോയിന്റ് കണക്റ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ 55 Ωഉം ഇത് നിങ്ങളുടെ 5Ω ഉം ആണ് അതിനാൽ ഇത് 1 ഉം ഈ പോയിന്റ് 2 ഉം ആണ് ഈ രണ്ട് ചെറുതാണ് അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഈ രണ്ട് പോയിന്റുകളും ചെറുതായതിനാൽ 9 ഉം 10 ഉം ഇതിനർത്ഥം കെണിയിലാണെന്നാണ് 9 ഉം 10 ഉം സമാന്തരവും 55 ഉം 5 ഉം സമാന്തരവുമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ സർക്യൂട്ട് വീണ്ടും വരച്ചാൽ ഇത് ടെർമിനൽ 1 ആയിരിക്കും ഇത് നിങ്ങളുടെ 90 ആയിരിക്കും ഇത് നിങ്ങൾ R30 ആയിരിക്കും ഇത് നിങ്ങളുടെ പൊതു ടെർമിനലാണ് ഇത് നിങ്ങളുടെ 55Ω ആയിരിക്കും ഇത് നിങ്ങളുടെ 5 Ω ഉം ആയിരിക്കും ഇത് ടെർമിനൽ 2 ആണ് അതിനാൽ ഈ 190 10100 ന് തുല്യമാണ് ഇത് ഈ ഭാഗത്തേക്ക് 9Ω ആയി മാറും ഇത് നിങ്ങൾ 55 555 5 കണക്കാക്കേണ്ടതുണ്ട് ഇത് 90 10 ആണ് അത് 100 ഉം അത് 55 560 ഉം ആണ്ഈ കണക്കുകൂട്ടൽ അവിടെ ഉണ്ട് ഇത് നിങ്ങൾക്ക് നൽകും ഇതും ഇതും സീരീസിലാണ് എന്നുള്ളത് അതിനാൽ ഇത് ചെയ്തതെല്ലാം നിങ്ങളെ ചുരുക്കിയിരിക്കുന്നു അതിനുശേഷം ഇവ രണ്ടും 90 ഉം 10 ഉം 55 ഉം 5 ഉം സമാന്തരമാണെന്ന് കാണിച്ചിരിക്കുന്നു ഇത് 9Ω ആണ് ഇതിന് തുല്യമായി ഇത് 4 58 വരുന്നു അതിനാൽ ആകെ RThevenin 13 58Ω ആണ് ഈ 10 Ω ഇപ്പോൾ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു 10Ω നിങ്ങളുടെ VThevenin മൂന്നിലൊന്ന് വോൾട്ട് RThevenin ഇതാണ് 10Ω ഇവിടെ കണക്റ്റുചെയ്തിരിക്കുന്നു അതിനാൽ ആത്യന്തികമായി നിങ്ങൾക്ക് VThevenin RThevenin 10 മൂന്നിലൊന്ന് 13 58 10 ലഭിക്കും ഇത് യഥാർത്ഥത്തിൽ 0 014 ആമ്പിയർ ആണ് ഇത് മനസിലാക്കാൻ എളുപ്പമാണ് അടുത്തതായി നിങ്ങൾ തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് ചിത്രം 40 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ 50 Ω റെസിസ്റ്ററിലൂടെ വൈദ്യുതധാര നിർണ്ണയിക്കുന്നു ഈ സാഹചര്യത്തിൽ മുമ്പത്തേതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഡാറ്റ വ്യത്യസ്തമായിരിക്കാം പക്ഷേ സർക്യൂട്ടിന്റെ ഘടന വ്യത്യാസത്തിൽ ഒരു അധിക പ്രതിരോധം ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് 10Ω മുമ്പത്തെ കേസിൽ ഇവിടെ ഒരു റെസിസ്റ്ററും ഇല്ലായിരുന്നു എന്നാൽ ഒരു 50 Ω 10 Ω റെസിസ്റ്റൻസ് ഉണ്ട് 50 Ω റെസിസ്റ്റൻസിലൂടെ കറന്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ ടെർമിനൽ നിങ്ങൾ 1 എന്ന് അടയാളപ്പെടുത്തുന്നുവെന്നും ഈ ടെർമിനൽ നിങ്ങൾ 2 എന്ന് അടയാളപ്പെടുത്തുന്നു എന്നിട്ട് നിങ്ങൾ പിന്തുടരുക അങ്ങനെ ആദ്യം ഈ 50 Ω പ്രതിരോധം തുറക്കണം നിങ്ങൾ ഇത് തുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ട് ഈ സർക്യൂട്ട് പോലെയാകും ഈ സാഹചര്യത്തിൽ ഈ വോൾട്ടേജ് ഇത് നിങ്ങളുടെ വോക്ക് ആണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുമ്പോഴെല്ലാം Voc VThevenin V 1 2 ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇത് തുറന്നാലുടൻ ഈ രൂപം നോക്കിയാൽ ഈ 50 Ω പ്രതിരോധം തുറക്കും ഇപ്പോൾ ഈ 30 60 ഇവ രണ്ടും ശ്രേണിയിലാണെന്ന് നോക്കൂ ഈ സർക്യൂട്ടിന് 30 60 90 Ω ഈ വശവും ഇത് 60 ആണ് ഇത് 30 ആണ് അതിനാൽ 60 30 90 ഇവിടെ ഇത് 90Ω ശ്രേണിയിലാണ് അതിനർത്ഥം ഇത് 90 Ω ആണ് അതിനർത്ഥം അതിനർത്ഥം i1 യഥാർത്ഥത്തിൽ i2 2 കാരണം ഈ ഘട്ടത്തിൽ ഏത് കറന്റ് പ്രവേശിക്കുന്നുവോ അത് കറന്റിന്റെ പകുതിയും ഇവിടെ പോകും അതിനാൽ i1 i2 അതായത് 2 i1 2 i2 ഇപ്പോൾ നിങ്ങൾക്ക് i2 i1 എന്നിവയ്ക്കായി എളുപ്പത്തിൽ പരിഹരിക്കാനാകും കാരണം i1 i2 അതിനർത്ഥം നിങ്ങൾ ഇവിടെ KCL പ്രയോഗിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ ഇവിടെ KCL പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ i1 i2 അതായത് ഒന്നുകിൽ R2 i1 അല്ലെങ്കിൽ 2 i2 ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന i1 i 2 എന്നിവ ലഭിക്കാൻ KVL പ്രയോഗിക്കുന്നു നിങ്ങൾ KVL ഇതുപോലെ പ്രയോഗിക്കുന്നു നിങ്ങൾ ഇത് ഇതുപോലെയാക്കിയാൽ ഈ 10 i ന് എന്ത് സംഭവിക്കും കാരണം അത് അതിലൂടെ ഒഴുകുന്നു അതിനാൽ ഇതിലൂടെ ഒഴുകുന്നു 10 മുതൽ വരെ ചലനങ്ങൾ ഇതുപോലെ നീങ്ങുന്നു നിങ്ങളുടെ ഈ i2 കറന്റ് 60 30 എന്നിവയിലൂടെ ഒഴുകുന്നു അതിനാൽ 90 i2 പിന്നെ 4 0 കാരണം ഈ 5 വോൾട്ട് എന്നാൽ ചോദ്യം 10 i1 i2 90 i2 5 എന്നാൽ i2 i1 നിങ്ങൾ ഇവിടെ ഇടുകയാണെങ്കിൽ i1 i2 എന്നിവയ്ക്ക് i1 പരിഹാരം ലഭിക്കും അത് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തു ഇതാണ് നിങ്ങൾ i2 എന്ന് വിളിക്കുന്നത് i1 ന് തുല്യമാണ് നിങ്ങൾക്ക് R3 22 ആമ്പിയർ ലഭിച്ചു നിങ്ങൾക്ക് ഒരിക്കൽ i2 i1 R3 22 ആമ്പിയർ ലഭിച്ചാൽ അതിനുശേഷം നിങ്ങൾ KVL പ്രയോഗിക്കുന്നു അടുത്തതായി ആ സർക്യൂട്ടിലേക്ക് പോകുക ഇവിടെ നിങ്ങൾക്ക് KVL പ്രയോഗിക്കാൻ കഴിയും ഒന്നുകിൽ ഇത് ഇത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ വോക്ക് ലൂപ്പാണ് ഇത് നിങ്ങളുടെ 6 ആയിരിക്കും ഈ i1 കറന്റ് ഒഴുകുന്നു ഇത് നിങ്ങളുടെ i2 ആണ് നിങ്ങൾ 60 i1 ആണെങ്കിൽ നിങ്ങളുടെ 30 i2 വോക് I1 i2 ഇടുക അതുവഴി നിങ്ങൾക്ക് Voc നിങ്ങളുടെ VThevenin ലഭിക്കും അതാണ് ഇവിടെ എഴുതിയത് അതിനാൽ Voc 1 36 വോൾട്ട് ലഭിച്ചു ഇതാണ് VThevenin Voc VThevenin ഇപ്പോൾ അടുത്തത് നിങ്ങളുടെ തുല്യമായ RThevenin ആണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് ചെറുതാക്കും അത് നോക്കൂ ഇത് ഷോർട്ട് ചെയ്യപ്പെടും അതായത് ഈ 10Ω പ്രതിരോധം അത് അവിടെ ഇല്ലെന്ന് കരുതുക അതായത് ഇത് ഇവിടെ വരും ഈ 10Ω അവിടെ ഉണ്ടാകും കാരണം ഇത് ചെറുതാക്കും കാരണം ഈ 2 പോയിന്റും ബന്ധിപ്പിച്ചിരിക്കുന്നു അവിടെ ഇല്ലെന്ന് കരുതുക ഞാൻ അത് ഉണ്ടാക്കുന്നുവെന്ന് കരുതുക അതിനാൽ 10Ω ഇവിടെ ഉണ്ടാകും ഇവിടെ നിങ്ങളുടെ 30 60 10 Ω 60 10Ω എന്നിവ ലഭിക്കുന്നു അവർ അതിൽ ഡെൽറ്റയിലാണ് ഇത് സ്റ്റാർ ആക്കി മാറ്റണം ഇത് നിങ്ങളുടെ R3 ആണെന്ന് കരുതുക ഇതാണ് നിങ്ങളുടെ R2 ഇത് 10 Ω R3 അതിനാൽ R1 R2 R3 30 60 10 30 60 10 100 ഈ ശാഖയുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ കഴിയും ഇതാണ് റെസിസ്റ്റൻസ് അതിനാൽ 30 60 900 R1 R2 R3 ഇത് 18Ω ആണ് കാരണം 30 60100 18Ω അതുപോലെ 30 10 ഈ ശാഖ ഇത് അതായത് ഇത് 18 Ω 30 10100 അതായത് 3Ω മറ്റൊന്ന് 60 10 600100 നിങ്ങളുടെ 6Ω ആണ് അതിനാൽ 18 Ω കൂടാതെ ഈ ഒന്ന് 2 ടെർമിനൽ ഇതുപോലെയാണ് ഇത് 1 ഇത് 2 ആണ് അതായത് 3 Ω 60 Ω ഇവ രണ്ടും സീരീസിലും 6 Ω 30 Ω സീരീസിലുമാണ് അതിനൊപ്പം ഈ സംയോജനം സമാന്തരമാണ് അതിനർത്ഥം ഇത് 63 ആണ് നിങ്ങളുടേത് 63Ω ആണ് ഇത് 3663 36 ആണ് ആ 18Ω യുമായി വരുന്നതെന്തും അതിനോടൊപ്പമാണ് അതിനാൽ ഇതിന് തുല്യമാണ് നിങ്ങളാണ് ഇത് 18 Ω ഉം 63 ഉം ആക്കിയത് ഇവ രണ്ടും സമാന്തരമാണെങ്കിൽ അതിനാൽ വരുന്നതിന് തുല്യമായ 22 91 Ω 18 18Ω എന്നിവ സീരീസിലാണ് ആകെ 40 91Ω ആണ് 91 ആണ് ഇവിടെ ഇത് നിങ്ങളുടെ 40 91 ഉം VThevenin ഉം നിങ്ങൾ കണക്റ്റുചെയ്യുന്നു ഇപ്പോൾ 50 Ω റെസിസ്റ്റൻസ് എടുത്തുകളഞ്ഞു നിങ്ങൾക്ക് കറന്റ് ലഭിക്കും അതാണ് 50 Ω റെസിസ്റ്റൻസിലേക്ക് ഒഴുകുന്നത് നിങ്ങളുടെ 0 പോയിന്റ് നിങ്ങളുടെ 0 1 ആമ്പിയർ ലഭിക്കും ഇത് എളുപ്പമാണ് തെവെനിന്റെ സിദ്ധാന്തം ഇത് പരിഹരിക്കുന്ന പൂർണ്ണ സർക്യൂട്ട് VThevenin RThevenin എന്നിവ മാത്രമേ നേടുന്നുള്ളൂ തുടർന്ന് ആ റെസിസ്റ്റൻസ് അതിലൂടെ ബന്ധിപ്പിക്കുക മാത്രമല്ല 50 Ω റെസിസ്റ്റൻസ് വരെ റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഇത് ഒഴുകുന്ന വൈദ്യുതധാരയാണ്